വൈകാരിക ബുദ്ധിയും ഹാപ്പിനെസ് പോസിറ്റീവ് സൈക്കോളജിയും തുടർച്ച സുസ്ഥിര സന്തോഷം മോഡലിന്റെ മറ്റ് മേഖലകളും അവയുമായി ബന്ധപ്പെട്ട ഘടകങ്ങലും നമുക്ക് പരിശോധിക്കാം അതിനാൽ സന്തോഷത്തിന്റെ സുസ്ഥിര മാതൃകയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മന പൂർവമായ പ്രവർത്തനങ്ങൾ മറ്റൊരു മേഖലയാണ് ഒരു വ്യക്തി മറ്റുള്ളവരുമായി ഇടപഴകാൻ തിരഞ്ഞെടുക്കുന്ന രീതിയും അയാളുടെ പ്രവർത്തനങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിലെ സന്തോഷം നിർണയിക്കുന്നു സന്തോഷമുള്ളവൻ അനുഗ്രഹീതനാണെന്നും അല്ലാത്ത പക്ഷം അവൻ പാപം ചെയ്തുവെന്നും ആ പാപം ആണ് അവന്റെ ദുഖത്തിന്റെ കാരണം എന്നും തമാശ രീതിയിൽ പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഒരു വ്യക്തി പെട്ടെന്ന് മരിക്കുന്നു പൊതുവെ മരണത്തെ യമരാജൻ മരണപ്പെട്ട വ്യക്തിയെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടി കൊണ്ട് പോയി എന്ന് പറയാറുണ്ട് പെട്ടെന്ന് മരണപ്പെട്ട ആ വ്യക്തി തന്റെ ജീവിതം പകുതി പോലും പൂർത്തിയായിട്ടില്ലെന്നും എന്തിനു എന്നെ മരണമെന്ന ശിക്ഷ തന്നു കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞു തർക്കിക്കുന്നു എന്ന് കരുതുക എന്റെ മരണം നേരത്തെ ആയില്ലേ എന്നെ ആ വ്യക്തിയുടെ ചോദ്യത്തിന് യമരാജൻ ഇങ്ങനെ മറുപടി നൽകുന്നു നിങ്ങളുടെ സമയം അമ്പത് വർഷമായിരുന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം കുറഞ്ഞു അതിനാൽ നിങ്ങളുടെ പാപങ്ങളും നല്ല പ്രവർത്തികളും താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ ആണ് കൂടുതൽ അപ്പോൾ ആ വ്യക്തി യമരാജുമായി തർക്കിക്കാൻ ശ്രമിക്കുന്നു എങ്ങനെ എന്റെ പാപങ്ങൾ ആണ് കൂടുതലെന്ന് കണക്കാക്കുന്നത് ഇതൊക്കെ ആരാണ് രേഖപ്പെടുത്തുന്നത് ഇവയെല്ലാം പരിപാലിക്കുന്ന മറ്റൊരു ദൈവമുണ്ടെന്നു അറിയുമ്പോൾ പാപങ്ങളുടെ കണക്കു സൂക്ഷിക്കുന്നിടത്തേക്ക് പോകുന്നു തന്റെ പ്രവർത്തനങ്ങളുടെ രജിസ്റ്റർ പരിശോധിക്കുമ്പോൾ അവന്റെ മസിലൂടെ കടന്നു പോയ പാപകരമായ ചിന്തകൾ പലതിനേയും നശിപ്പിക്കാനും മറ്റുള്ളവരെ കൊല്ലുക എന്നിവ രേഖപെടുത്തിയിരിക്കുന്നതായി കാണുന്നു അപ്പോൾ ആ വ്യക്തി അവന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും സ്വയം താരതമ്യം ചെയ്യാൻ തുടങ്ങി എന്തുകൊണ്ട് ഈ രജിസ്റ്ററിൽ എനിക്ക് തോന്നിയ അനേകം നല്ല കാര്യങ്ങൾ രേഖപ്പെടുത്താതെ പോയത് ഈ പ്രദേശങ്ങളിൽ ഒരു ക്ഷേത്രം സൃഷ്ടിക്കാൻ ഞാൻ ആലോചിച്ചു ഈ പ്രദേശങ്ങളിൽ ഒരു സ്കൂൾ പണിയാൻ ഞാൻ ആലോചിച്ചു ഇതൊന്നും നല്ല പ്രവർത്തങ്ങളായി കണക്കാക്കില്ലേ പെട്ടെന്നുതന്നെ അവർ ഇത് മനസ്സിലാക്കുകയും ഈ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങൾ എണ്ണാൻ തുടങ്ങുകയും അവന്റെ പാപങ്ങളുടെ എണ്ണം കുറവാണെന്ന് കണ്ട് ശിക്ഷയുടെ അളവ് കുറയുകയും കുറച്ച് വർഷങ്ങൾ കൂടി ജീവൻ നീട്ടി നൽകുകയും ചെയ്തു എല്ലാം ഒരു തമാശയാണെന്ന് തോന്നുമെങ്കിലും ജീവിതത്തെയും മരണത്തെയും കണക്കിലെടുക്കുമ്പോൾ അതിനു പിന്നിൽ ചില ശാസ്ത്രീയ കാരണങ്ങളുണ്ട് അവരവരുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ക്രിയാത്മകമായി സംഭാവന ചെയ്യുന്ന ആളുകൾ അവർക്ക് ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും തോന്നുന്നു ഈ പോസിറ്റീവ് ചിന്ത മനുഷ്യന്റെ ദീർഘായുസ്സ് വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു അതിനാൽ ഇത് ഒരുവന്റെ അനുഗ്രഹീതമായ പ്രവർത്തനങ്ങളുടെ ഫലമായി കണക്കാക്കാം നിങ്ങൾ ദരിദ്രനായ ഒരാളോട് ദയ കാണിക്കുമ്പോൾ ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ സഹായിക്കാനും ആശുപത്രികളിലേക്ക് അയയ്ക്കാനും നിങ്ങൾ പ്രവർത്തിക്കുന്നു ഇത്തരത്തിലുള്ള പെരുമാറ്റം തന്നെക്കുറിച്ചുള്ള ഒരാളുടെ പ്രതീക്ഷയെ മാറ്റിമറിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഉയർന്ന മനോഭാവം കാണിക്കുന്നു അങ്ങനെ അത് ഒരാളുടെ ജീവിതത്തിലും പൊതുവേ ലോകത്തിലും ഒരുതരം സംതൃപ്തി നൽകുന്നു അതിനാൽ മനപൂർവമായ പ്രവർത്തനങ്ങൾ സുസ്ഥിര സന്തോഷത്തെ നേരിട്ട് ബാധിക്കുന്നു അതിനാൽ നിങ്ങളുടെ എല്ലാ നല്ല സംഭാവനകളും നിങ്ങൾ കണക്കാക്കുന്നത് തുടരുകയാണെങ്കിൽ അത് നിങ്ങളുടെ സുസ്ഥിര സന്തോഷത്തിന് ഏറ്റവും മികച്ചത് സൃഷ്ടിച്ചേക്കാം സുസ്ഥിര സന്തോഷത്തിനെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് ഒരാളുടെ ജീവിതത്തിന്റെ പശ്ചാത്തലം ഉൾക്കൊള്ളുന്ന സാഹചര്യ ഘടകങ്ങൾ അവിശ്വാസ൦ പക ആക്രമണം ഭീകരത തുടങ്ങിയ സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ഇവയെല്ലാം വിപരീതമായ രീതിയിൽ അവനെന്റെ പ്രവർത്തനത്തെ ബാധിക്കും എന്നാൽ ഒരു പരിതസ്ഥിതിയിൽ സമാധാനവും സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഒരു കുടുംബത്തിൽ ഒരു സംഘടനയിൽ താമസിക്കുന്ന ഒരു വ്യക്തി കൂടുതൽ സുഖകരവും കൂടുതൽ സന്തോഷവും കൂടുതൽ സഹായകരവുമാകാൻ സാധ്യതയുണ്ട് കൂടാതെ അതെ സ്ഥലത്തു തന്നെ ആജീവനാന്തം തുടരാനും ആഗ്രഹിക്കും ഉദാഹരണത്തിന് ഒരു സ്ഥലത്തു താമസിക്കുന്ന ആളുകൾ ലിംഗസമത്വം ലിംഗ സംവേദനക്ഷമത വംശീയത എന്നിവയോട് സംവേദനക്ഷമത കാണിക്കുന്നു കൂടാതെ അവിടെ വംശീയ അതിക്രമങ്ങലും ഇല്ല ഇവയൊക്കെ ആ പ്രദേശത്തെയും അവിടെ താമസിക്കുന്ന ആളുകളെയും ബാധിക്കുന്നു തെരഞ്ഞെടുപ്പിനുശേഷം അമേരിക്കയിൽ നടക്കുന്നത് പോലെ കറുത്തവരും വെള്ളക്കാരും തമ്മിൽ വലിയ പോരാട്ടം നടക്കുന്നുണ്ടെന്ന് കരുതുക കറുത്തവരെ തിരഞ്ഞുപിടിച് ദ്രോഹിക്കുന്നത് വെള്ളക്കാരാണ്ഇത് വലിയ പ്രതിഷേധമുണ്ടാക്കുന്നു ഒപ്പം ജനങ്ങളുടെ മനസ്സിൽ വംശീയത വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള അന്തരീക്ഷം മനുഷ്യന്റെ ആരോഗ്യത്തെയും സന്തോഷത്തെയും ബാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ആഘാതകരമായ അനുഭവങ്ങൾ സുസ്ഥിരമായ സന്തോഷത്തെ ബാധിക്കും ഉദാഹരണത്തിന് ആഘാതവും വിജയവും നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കുന്നോ അത് നിങ്ങളുടെ സുസ്ഥിരത വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഒന്നിനുപുറകെ ഒന്നായി നിങ്ങൾ തുടർച്ചയായി ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഉദാഹരണത്തിന് സ്കൂൾ ദിവസങ്ങളിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ വിവാഹശേഷം നിങ്ങളുടെ കുടുംബാംഗങ്ങൾ പിന്നെ നിങ്ങളുടെ ജോലി സാഹചര്യത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം നിങ്ങളുടെ ജോലി സ്ഥലത്തു നിങ്ങളെ ഒരു നല്ല ജീവനക്കാരനായി കണക്കാക്കപ്പെടുന്നില്ല ഇത്തരത്തിലുള്ള ആവർത്തിച്ചുള്ള അനുഭവം ഒരാളുടെ സന്തോഷത്തിന്റെ വികാരത്തെ അടിച്ചമർത്താം അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിലെ ഏറ്റവും നിന്ദ്യനായ വ്യക്തിയാണെന്ന് കരുതാൻ തുടങ്ങും അതുകൊണ്ടാണ് വ്യക്തിപരമായ അനുഭവം ഒരാളുടെ സുസ്ഥിര സന്തോഷത്തെ സമനിലയിലാക്കുന്നത് ഒരാളുടെ ജീവിത നില വൈവാഹിക നില വിദ്യാഭ്യാസ നില ആരോഗ്യസ്ഥിതി എന്നിവയെല്ലാം ഒരാളുടെ സുസ്ഥിര സന്തോഷ നിമിഷത്തിന്റെ നിർണ്ണായക ഘടകങ്ങളാണ് ശാരീരിക ആകർഷണം നിങ്ങൾ വളരെ സുന്ദരനാണെന്ന് കരുതുക നിങ്ങളുടെ സൌന്ദര്യത്തെ ആളുകൾ വിലമതിക്കുന്നുവെന്നും വളരെയധികം പുകഴ്ത്തുന്നുവെന്നും കരുതുക അത് നിങ്ങൾക്ക് വളരെയധികം ആന്തരിക സംതൃപ്തി ഉണ്ടാക്കുകയും അത് ഒരാളുടെ സുസ്ഥിരത വർദ്ധിപ്പിക്കുകായും ചെയ്യുന്നു ഒരാളുടെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ അൻപത് ശതമാനം സെറ്റ് പോയിന്റ് സംഭാവന ചെയ്യുമ്പോൾ മനഃ പൂർവമായ പെരുമാറ്റം നാൽപത് ശതമാനവും സാഹചര്യങ്ങൾ പത്ത് ശതമാനവും സംഭാവന ചെയ്യുന്നു സാംസ്ക്കാരിക മാറ്റങ്ങൾക്കൊപ്പം ഇത് വ്യത്യാസപ്പെടാം അതിനാൽ സന്തോഷം ക്ഷേമത്തിന് തുല്യമാണെന്ന് അർത്ഥമാക്കുന്നുണ്ടോ അതിനാൽ നമുക്ക് നോക്കാം അതിനാൽ ക്ഷേമം ആളുകളുടെ ജീവിതാനുഭവങ്ങളുടെ നിലവാരത്തിന് തുല്യമാണ് ചില ആളുകൾ സന്തോഷത്തിന്റെയും അർത്ഥത്തിന്റെയും സംയോജനമാണ് ക്ഷേമം എന്ന് പറയുന്നു അതായത് സന്തോഷകരമായ ജീവിതവും അർത്ഥവത്തായ ജീവിതവും അതിനാൽ ഇവ രണ്ടും ഒരാളുടെ ക്ഷേമത്തിനായി സംഭാവന ചെയ്യുന്നു അതിനാൽ ആ മേഖലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതുപോലുള്ള സന്തോഷത്തിന്റെ വ്യത്യസ്ത സമീപനങ്ങൾ ഇവിടെയുണ്ട് ഒരു വ്യക്തി എങ്ങനെ സന്തുഷ്ടനാകും അതിനാൽ ഇവ ജീവിത ലക്ഷ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും ചില മുൻഗാമികളാണ് അതിനാൽ നിങ്ങളുടെ പ്രവർത്തന പദ്ധതി പ്രകാരമാണ് ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ സന്തുലിതമായ ജീവിതം നയിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ലക്ഷ്യങ്ങൾ നേടാനായില്ലെങ്കിൽ തടസ്സങ്ങളോ മറ്റു വ്യത്യസ്ത ഘടകങ്ങളോ നിങ്ങളുടെ സംതൃപ്തി സന്തോഷ൦ എന്നിവയെ തടസ്സപ്പെടുത്തുന്നു എന്നാൽ സന്തോഷത്തെക്കുറിച്ചുള്ള ആത്മനിഷ്ഠമായ സാധ്യതകൾ നോക്കുമ്പോൾ വ്യത്യസ്ത ക്ഷേമങ്ങൾ ഉണ്ട് ആത്മനിഷ്ഠമായ ക്ഷേമം എന്നതിനെക്കുറിച്ച സംസാരിക്കുമ്പോൾ ഹെഡോണിക് എന്ന ഏറ്റവും വികാരാധീനമായ ഘടകത്തെപറ്റിയാണ് ഡീനർ അഭിപ്രായപ്പെട്ടത് നിങ്ങൾക്ക് ഒരാളുടെ ആത്മനിഷ്ഠ ക്ഷേമത്തെ വിലയിരുത്താൻ അയാളുടെ ജീവിതത്തിലെ പോസിറ്റീവ് നെഗറ്റീവ് സാഹചര്യങ്ങളെ വിലയിരുത്തിയാൽ മതിയാകും എന്നാൽ റൈഫ് മുന്നോട്ടു വച്ച ചലനാത്മക സമീപനം നോക്കുകയാണെങ്കിൽ ഇത് പലപ്പോഴും സ്വയം തിരിച്ചറിവാണ് എന്റെ ജീവിതത്തിൽ അത്യാധുനിക സൌകര്യങ്ങൾ എനിക്കില്ലായിരിക്കാം പക്ഷേ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ മികച്ച ആളാണെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ കഴിയും അതിനാലാണ് സന്തോഷം കേവലം ഒരു വികാര ഘടകമല്ലെന്നും അത് ഒരു മൾട്ടി കംപോണന്റ് പ്രോസ്പെക്റ്റീവ് അവകാശമാണെന്നും റൈഫ് പറയുന്നു അതിനാൽ മുഴുവൻ മാനസികാരോഗ്യ ചട്ടക്കൂടിൽ വൈകാരികവും സാമൂഹികവും മന ശാസ്ത്രപരവുമായ മൂന്ന് പ്രധാന ഡൊമെയ്ൻ ഉൾക്കൊള്ളുന്നു അതിനുപുറമെ ഞാൻ അതിലേക്ക് ആത്മീയ മാന൦ കൂടി കൂട്ടി ചേർക്കുന്നു എന്തുകൊണ്ട് ആത്മീയ൦ കാരണം സ്വഭാവത്തിൽ വളരെ ആത്മനിഷ്ഠമാണെങ്കിലും നിങ്ങൾ ഒരു ട്രാൻസെൻഡൻസ് തലത്തിൽ എത്തിച്ചേരേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ഇന്ത്യൻ സാഹചര്യത്തിൽ ആളുകൾ പലപ്പോഴും സംസാരിക്കുന്നത് മോക്ഷ സങ്കല്പമാണ് അത് ക്ഷേമത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ക്ഷേമത്തിന് ആത്മീയ മാനം ചേർത്തുകൊടുക്കുന്നത് സാധ്യമല്ല എന്നാൽ നിങ്ങൾ എങ്ങനെ ഇതിനെ ബന്ധിപ്പിക്കുന്നു നിങ്ങൾ എന്തിനെയാണ് സൂപ്പർ സെൽഫ് എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് നിങ്ങൾ ഉയർന്ന ഘട്ടം എന്ന് വിളിക്കുന്നത് വൈകാരിക ക്ഷേമമെന്നാൽ നിങ്ങൾ ജീവിതം എത്രത്തോളം ഫലപ്രദമായി ആസ്വദിക്കുന്നുവെന്നോ അല്ലെങ്കിൽ സംതൃപ്തി നൽകുന്ന ഘടകങ്ങളുടെ സാന്നിധ്യമാണ് പക്ഷേ സ്വീകാര്യത ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ക്ഷേമം സമൂഹത്തിൽ നിങ്ങളെ എങ്ങനെ സ്വീകരിക്കും നിങ്ങളുടെ ചങ്ങാതിക്കൂട്ടത്തിൽ ജോലിസ്ഥലത്ത് കുടുംബ യഥാർഥത്തിൽ നിങ്ങളുടെ സംഭാവന എന്താണ് മറ്റുള്ളവരോടുള്ള യോജിപ്പും സംഭാവനയും എന്താണ് അതിനാൽ ഇത് നിങ്ങളുടെ സാമൂഹിക ക്ഷേമം നിങ്ങളുടെ സാമൂഹിക പ്രതിച്ഛായ പ്രത്യേകിച്ച് സമൂഹത്തിലെ നിങ്ങളുടെ സാമൂഹിക പ്രതിച്ഛായയെ ലേബൽ ചെയ്യുന്നു എന്നാൽ മന ശാസ്ത്ര ക്ഷേമത്തെക്കുറിച്ച് നോക്കുമ്പോൾ അത് കേവലം വൈകാരിക ക്ഷേമമോ സാമൂഹിക ക്ഷേമമോ അല്ല ശരിക്കും ഇത് ഒരു സ്വയം തിരിച്ചറിവാണോ നിങ്ങൾ ഒരു നല്ല വ്യക്തിയാണെന്ന് സ്വയം അംഗീകരിക്കുന്നുണ്ടോ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് നല്ലൊരു സ്വരൂപമുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ച മറ്റുള്ളവർ അംഗീകരിക്കുന്നു സമൂഹത്തിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തു നിങ്ങൾ എവിടെയാണ് നിങ്ങളെ കാണുന്നത് എവിടെയാണ് ആളുകൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ച നിങ്ങളുടെ ജീവിതത്തിലെ ഉദ്ദേശ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ ജീവിക്കുന്ന പരിസ്ഥിതി ഇത് വളരെ പ്രധാനമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമാണോ മറ്റുള്ളവരുമായുള്ള നല്ല ബന്ധം സ്വയം പ്രകടിപ്പിക്കാനുള്ള സ്വയംഭരണാധികാരം നിങ്ങൾ ആസ്വദിക്കുന്നു ഇവയൊക്കെ ഒരാളുടെ ക്ഷേമത്തിന്റെ സൂചനകൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ റൈഫ് നിർദ്ദേശിച്ച മന ശാസ്ത്രപരമായ ക്ഷേമത്തിന്റെ പ്രധാന 6 ഘടകങ്ങളാണ് ഇവ സ്വയംഭരണാധികാരം പാരിസ്ഥിതിക വൈദഗ്ദ്ധ്യം വ്യക്തിഗത വളർച്ച മറ്റുള്ളവരുമായുള്ള നല്ല ബന്ധം ജീവിതത്തിലെ ലക്ഷ്യം സ്വയം സ്വീകാര്യത എന്നിവയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു അതിനാൽ ഈ സ്ലൈഡ് ശാസ്ത്രപരമായ ക്ഷേമത്തിന്റെ പ്രധാന അളവുകളും സൈദ്ധാന്തിക അടിത്തറയും കാണിക്കുന്നു റൈഫ് മോഡലുകളുടെ ആറ് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും സമഗ്രമായ മോഡലുകളിൽ ഒന്നാണിത് മാനസിക ക്ഷേമത്തെ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന വ്യക്തിയായി കണക്കാക്കാമെന്ന് റോജേഴ്സ് പറയുന്നു ഇത് ഇന്നലെ ക്വിസ് ടെസ്റ്റിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് മനുഷ്യ വ്യക്തിത്വങ്ങളുടെ പൂർണ്ണമായ പ്രവർത്തന മാതൃക ആരാണ് നിർദ്ദേശിച്ചത് റോജർ ഒരാളുടെ പ്രവർത്തനത്തിന്റെ സമന്വയ വളർച്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രവർത്തനത്തെ സമന്വയിപ്പിക്കുന്നതിനെക്കുറിച്ചോ സംസാരിക്കുന്നു പൂർണ്ണമായ പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് ഒരാളുടെ പ്രവർത്തനത്തിന്റെ സാമൂഹിക ആത്മീയ വൈകാരിക വൈജ്ഞാനിക ഡൊമെയ്നെ ഞങ്ങൾ പരാമർശിക്കുന്നു എന്നാൽ ആൽഫ്രഡ് പറയുന്നത് ഒരാളുടെ ക്ഷേമ൦ അവന്റെ പക്വതയെ അടിസ്ഥാനമാക്കിയാണെന്നാണ് അതിനാൽ ക്ഷേമം എന്നാൽ ഒരാളുടെ മാനസിക പക്വത അല്ലെങ്കിൽ വൈകാരിക പക്വത എന്നതൊക്കെയാണ് എന്താണ് ഈ വൈകാരിക അല്ലെങ്കിൽ മാനസിക പക്വത അതായത് സമൂഹം പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നു എന്നതാണ് അതായത് നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ചുറ്റുപാടുകളുടെ പ്രതീക്ഷയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുക വ്യക്തിഗത എക്സിക്യൂട്ടീവ് പ്രക്രിയ പോലുള്ള നിരവധി മേഖലകളുണ്ട് ചില ആളുകൾ പറയുന്നത് ന്യൂഗാർട്ടൻ തുടർന്ന് ബുഹ്ലർ അടിസ്ഥാന ജീവിത പ്രവണതകളെക്കുറിച്ചും സംസാരിക്കുന്നു എന്നാണ് ഒരാൾക്ക് ക്ഷേമം നേടുന്നതിന് അത്യാവശ്യമായ അടിസ്ഥാന ജീവിത പ്രവണതകളാണ് ഇവ എറിക്സൺ സാമൂഹ്യവികസനത്തിന്റെ എട്ട് ഘട്ടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു ഒരാളുടെ വ്യക്തിഗത വികസന൦ അയാളുടെ ക്ഷേമത്തിന്റെ സൂചനയാണ് മനുഷ്യന്റെ ഇച്ഛയാണ് അവന്റെ ജീവിതത്തിനു അർഥം നൽകുന്നതെന്ന് ഫ്രാങ്ക് അഭിപ്രായപ്പെടുന്നു നിങ്ങളുടെ ജീവിതത്തിലെ അർത്ഥത്തെ നിങ്ങൾ എത്രത്തോളം വിലമതിക്കുന്നു അത് ഒരാളുടെ ക്ഷേമത്തിന്റെ സൂചനയാണ് ജഹോദയുടെ അഭിപ്രായത്തിൽ ഒരാളുടെ മാനസികാരോഗ്യമാണ് അവന്റെ ക്ഷേമത്തിന് തുല്യമായത് എന്നാൽ ജംഗിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് വ്യക്തികളുമായി ക്ഷേമത്തെ അദ്ദേഹം ലേബൽ ചെയ്യുന്നു മാസ്ലോ സംസാരിക്കുന്നത് സ്വയം യാഥാർത്ഥ്യമാക്കലാണ് ഒരാളുടെ ഏറ്റവും ഉയർന്ന ക്ഷേമമെന്നാണ് ആളുകൾക്ക് നിരവധി വിശദീകരണങ്ങളുണ്ട് എന്നിരുന്നാലും സാമൂഹിക വൈകാരിക ആത്മീയ മന ശാസ്ത്രപരമായ നാല് പ്രധാന ഡൊമെയ്നുകളിലാണ് ക്ഷേമത്തിന്റെ കേന്ദ്രവിഷയം നിലനിൽക്കുന്നത് സ്ലൈഡ് സമയം 1713 കാണുക ഈ ഡയഗ്രം ക്ഷേമത്തിന്റെ ചലനാത്മക മാതൃകയെക്കുറിച്ച് സംസാരിക്കുന്നു ക്ഷേമത്തെക്കുറിച്ച് ഒരാളുടെ പ്രവർത്തനത്തെയും ആവശ്യങ്ങളുടെ സംതൃപ്തിയെയും ആശ്രയിച്ചിരിക്കു൦ അയാളുടെ ക്ഷേമം അവസ്ഥ അവസരങ്ങൾ തടസ്സങ്ങൾ അസമത്വങ്ങൾ സാമൂഹിക മാനദണ്ഡങ്ങൾ സംസ്കാരം എന്നിവയാണ് ഒരു വ്യക്തി എങ്ങനെ നന്നായി പ്രവർത്തിക്കും എന്നതിന് വളരെ പ്രധാനപ്പെട്ടതും സ്വാധീനിക്കുന്നതുമായ ഘടകങ്ങൾ അതിനാൽ അവ ഒരാളുടെ സമാധാനവും ക്ഷേമവും ശല്യപ്പെടുത്തുമോ പുന സ്ഥാപിക്കുമോ എന്നും തീരുമാനിക്കുന്നു ഒരാളുടെ ജീവിതാനുഭവങ്ങൾ എന്നാൽ സന്തോഷം സംതൃപ്തി താൽപ്പര്യം വിരസത ദുരിതം എന്നിവ കൂടിച്ചേരുന്നതാണ് ജീവിതത്തിൽ വിരസതയും ദുരിതവുമാണ് ആധിപത്യം പുലർത്തുന്നതെങ്കിൽ ക്ഷേമം കുറയും സന്തോഷവും സംതൃപ്തിയും താൽപ്പര്യവും തീക്ഷ്ണതയും കൂടുതലാണെങ്കിൽ ക്ഷേമം വർദ്ധിക്കും മറ്റൊരു പ്രധാന മേഖലയാണ് മന ശാസ്ത്രപരമായ വിഭവസമൃദ്ധി നിങ്ങൾ എത്രമാത്രം മന ശാസ്ത്രപരമായി വിഭവസമൃദ്ധമാണ് എന്നത് ഒരാളുടെ ക്ഷേമത്തിന്റെ സൂചനയാണ് ഉദാഹരണത്തിന് ഊർജ്ജസ്വലത ശുഭാപ്തിവിശ്വാസം ആത്മാഭിമാനം തുടങ്ങിയ അതിനാൽ ജീവിതത്തിൽ ഉയർന്ന തലത്തിലുള്ള ക്ഷേമം അനുഭവിക്കുന്ന ആളുകൾ ഊർജ്ജസ്വലരായിരിക്കാനും ഉയർന്ന ആത്മാഭിമാനമുണ്ടാകാനും അവർ ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസികളാകാനും സാധ്യതയുണ്ട് കൂടാതെ മറ്റ് ചില സ്വഭാവഗുണങ്ങളും ഒരാളുടെ ക്ഷേമത്തിന്റെ പ്രതിഫലനങ്ങളാണ് സ്വയംഭരണാധികാരമുള്ളവരും മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നതും അതിനാൽ ഉയർന്ന തലത്തിലുള്ള ക്ഷേമത്തിന് സാധ്യതയുള്ള ഒരു വ്യക്തിയുടെ ശാസ്ത്രീയ സ്വഭാവ സവിശേഷതകളാണിത് ഒരു വ്യക്തിയുടെ യുക്തി ഒരാളുടെ ക്ഷേമത്തിന്റെ വൈജ്ഞാനിക അടയാളങ്ങളാണ് അതിനർത്ഥം അവന്റെ വൈജ്ഞാനിക പ്രവർത്തനം നല്ലതാണെന്നാണ് ക്ഷേമത്തിന്റെ മാർഗ്ഗനിർദ്ദേശ അളവുകളുടെ സിദ്ധാന്തത്തിന്റെ ചില നിർവചനങ്ങൾ ഇവയാണ് ഉദാഹരണത്തിന് ഞങ്ങൾ സ്വയം സ്വീകാര്യതയെക്കുറിച്ച് സംസാരിച്ചതുപോലെ പറയുക സ്വയം സ്വീകാര്യതയെ ക്ഷേമത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ വിവരിക്കുന്നു ഇത് സ്വയത്തോട് ഒരു പോസിറ്റീവ് മനോഭാവം ഉളവാക്കുകയും അത് നല്ലതും ചീത്തയുമായ ഗുണങ്ങൾ ഉൾപ്പെടെ സ്വയത്തിന്റെ ഒന്നിലധികം വശങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു ഒപ്പം ഭൂതകാലത്തെക്കുറിച്ച് പോസിറ്റീവായി തോന്നുകയും ചെയ്യുന്നു അതിനാൽ ഈ വശങ്ങളിൽ ഉയർന്ന സ്കോർ നേടുന്ന ഒരു വ്യക്തി മികച്ച ക്ഷേമം നേടാൻ സാധ്യതയുണ്ട് സ്വയം നിരാശയോടെ വെറുപ്പുളവാക്കുന്ന പ്രശ്നകരമായ ജീവിതം മറ്റുള്ളവരിൽ നാം കാണുന്നതിനേക്കാൾ നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ക്ലാസ്സിൽ താൽപ്പര്യമില്ലാത്ത ആളുകളിൽ ഇത്തരം സവിശേഷതകൾ ഞാൻ പലപ്പോഴും നിരീക്ഷിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ചിലർ ക്ലാസ്സിൽ വരാത്തത് മറ്റൊരു കാര്യം മറ്റുള്ളവരുമായുള്ള നല്ല ബന്ധം ക്ലാസിൽ ക്രമരഹിതമായ ആളുകൾക്കുള്ളിൽ ഈ സ്വഭാവസവിശേഷതകളെല്ലാം ഞാൻ കാണാറുണ്ട് ഉയർന്ന സ്കോർ എന്നതിനർത്ഥം ഒരാളുടെ വ്യക്തിത്വം തൃപ്തികരമാണെന്നാണ് മറ്റുള്ളവരുമായുള്ള വിശ്വാസബന്ധം സഹാനുഭൂതി വാത്സല്യബന്ധം മനുഷ്യബന്ധങ്ങൾ നിലനിർത്താൻ സ്നേഹം നൽകാനും ഏറ്റെടുക്കാനും ഉള്ള മനസ് എന്നിവ ഒരാളുടെ വ്യക്തിത്വത്തെ കാണിക്കുന്നു ഇത്തരം ആളുകൾ ക്ലാസ്സിൽ വളരെ ആത്മാർത്ഥതയുള്ളവരാണ് അവർ ക്ലാസ്സിൽ ഹാജരാകാത്ത കുട്ടികൾക്ക് വേണ്ടി പ്രോക്സി ചെയ്യാറുണ്ടായിരുന്നു അതിനാൽ ഞാൻ പലപ്പോഴും അവരോട് ഓകെ പറയാറുണ്ടായിരുന്നു മറ്റൊരു കാര്യം വ്യക്തിഗത വളർച്ചയാണ് മാത്രമല്ല ക്ലാസ്സിൽ കുറഞ്ഞ സ്കോർ ഉള്ളവരുടെ വ്യക്തിഗത വളർച്ചയും വളരെ കുറവാണ് എന്നും ഇത് പറയുന്നു അവർ മറ്റ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിന്റെ മൊത്തത്തിലുള്ള വളർച്ചയുണ്ടാകുമെന്ന് അവർ കരുതുന്നു വ്യക്തിത്വത്തിന്റെ സമഗ്ര വികസനം നിങ്ങൾക്കാവശ്യമില്ല അതിനാൽ ഒരാളുടെ ഉയർന്നതും വ്യക്തിപരവുമായ വളർച്ച ക്ഷേമത്തിന്റെ ഉയർന്ന സൂചനയായി കണക്കാക്കുന്നു വളർന്നുവരുന്നതും വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരാളുടെ വ്യക്തി വികസനം അവർ അനുഭവത്തിന് വളരെ തുറന്നവരാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു അവന്റെ അല്ലെങ്കിൽ അവളുടെ കഴിവ് മനസ്സിലാക്കുന്നതിലൂടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാവുന്നു എന്നാൽ മറുവശത്ത് വ്യക്തിഗത വളർച്ചയിൽ കുറവുള്ള ആളുകൾക്ക് ഉയർന്ന തോതിൽ വ്യക്തിപരമായ സ്തംഭനാവസ്ഥ ഉണ്ടാകാനും മെച്ചപ്പെടലിന്റെ അഭാവം ജീവിതത്തിൽ വിരസത താൽപ്പര്യമില്ലായ്മ സമയ ബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കൂടാതെ പുതിയ മനോഭാവവും പെരുമാറ്റവും വികസിപ്പിക്കാൻ കഴിയില്ലെന്ന് തോന്നുകയും ചെയ്യുന്നു സമയ ബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന്റെ ഉദാഹരമാണ് ഞാൻ ഏതെങ്കിലും അസൈൻമെന്റുകൾ നൽകുമ്പോഴെല്ലാം അത്ഭുതകരമാംവിധം അവർ ഡെഡ് ലൈനിനു ശേഷം വീണ്ടും സമയം കൂടി ചോദിക്കും സർ വൈകുന്നേരത്തോടെ ഞാൻ ഇത് സമർപ്പിച്ചാൽ മതിയോ ഞാൻ ഒകെ പറയുന്ന നിമിഷം അവർ പറയു൦ സർ വൈകുന്നേരം എനിക്ക് ലാബ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഞാൻ നാളെ സമർപ്പിച്ചാൽ മതിയോ അതിനാൽ അവരുടെ സമയം വിപുലീകരിക്കുന്നതിന് കൂടുതൽ കൂടുതൽ തവണ ആവശ്യപ്പെടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവർക്കറിയാം ജീവിതത്തിൽ ഒരിക്കലും അന്തിമകാലാവധി എന്നതിന്റെ പ്രാധാന്യം അവർ അറിയാതെ പോകുന്നു ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ആരോഗ്യകരമായ ക്ഷേമം നിലനിർത്താൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ദിശാബോധവും ഉണ്ട് വർത്തമാനത്തിനും ഭൂതകാലത്തിനും ഒരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നു അതിനാൽ ജീവിത ലക്ഷ്യങ്ങൾ തുടരുന്നു അതിനാൽ ഒരാളുടെ ജീവിതത്തിൽ ക്ഷേമം പുന സ്ഥാപിക്കുന്നതിൽ അത് വളരെ പ്രധാനമാണ് അതെ പാരിസ്ഥിതിക വൈദഗ്ദ്ധ്യം വളരെ പ്രധാനമാണ് കാരണം ഉയർന്ന സ്കോർ നേടുന്ന ഒരാൾ ഓരോ പാണ്ഡിത്യത്തിന്റെയും അടയാളമാണ് പരിസ്ഥിതി നിയന്ത്രണങ്ങൾ സങ്കീർണ്ണമായ ബാഹ്യ പ്രവർത്തനങ്ങളുടെ നിര കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവ് ചുറ്റുപാടുകളും അവസരങ്ങളും ഫലപ്രദമായി ഉപയോഗിക്കുകയും തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ ഉള്ള കഴിവ് വ്യക്തിഗത ആവശ്യങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുയോജ്യമായ സന്ദർഭം കണ്ടെത്തുക തുടങ്ങിയവ അതിനാൽ ആളുകൾ അവരുടെ വ്യക്തിത്വങ്ങളുടെ ആകർഷണീയമായ പ്രവർത്തനം കാണിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അതിനാൽ ഒരാളുടെ ക്ഷേമം അളക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അധ്യാപകനെന്ന നിലയിൽ ഒരു ലളിതമായ കാര്യം ചെയ്യുക സ്വയം സ്വീകാര്യത പോലെ ഉള്ള ഓരോ അളവുകളും റേറ്റ് ചെയ്യുക അതിനെ ഒന്ന് മുതൽ പത്ത് വരെ റേറ്റുചെയ്യാൻ അവരോട് ആവശ്യപ്പെടുക സമാനമായി നിങ്ങൾക്ക് മറ്റുള്ളവരുമായുള്ള നല്ല ബന്ധത്തെയും രേഖ പെടുത്തുക അതിനാൽ ആ വ്യക്തിയോട് ചോദിക്കുക മറ്റുള്ളവരുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ നിലവാരം എന്ന് ആ പത്ത് പോയിന്റ് സ്കെയിലിൽ എവിടെ നിൽക്കുന്നുവെന്ന് അത് ആ വ്യക്തിയെപറ്റി കൃത്യമായി ഒരു സൂചന നൽകും അതിനു ശേഷം ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങളുടെ വ്യക്തിഗത വളർച്ച അളക്കാൻ ആവശ്യപ്പെടുക ഈ ചെറിയ കാര്യം സ്കൂളിലോ ക്ലാസ് റൂം സാഹചര്യങ്ങളിലോ നടത്താം വിദ്യാർത്ഥികളോട് അവർ കൃത്യമായി യോജിക്കുന്ന ഇടം മനസിലാക്കാൻ നിങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നു അത് അവരുടെ ക്ഷേമത്തിന്റെ കൃത്യമായ അവസ്ഥ നൽകില്ലായിരിക്കാം ഒരുപക്ഷേ അത് അവരുടെ ജീവിതത്തിന്റെയും പരിസ്ഥിതിയുടെയും വൈദഗ്ധ്യ൦ മനസിലാക്കി കൊടുക്കും അതിനാൽ ഇതിനെ ഞങ്ങൾ ഒബ്ജക്റ്റീവ് അസസ്മെന്റ് bഎന്ന് വിളിക്കുന്നു ഇത് പത്ത് പോയിന്റ് സ്കെയിലിൽ ഓരോ അളവുകളും റേറ്റുചെയ്യാൻ കഴിയും ഒരു കഥ പറച്ചിലിലൂടെയും ഇത് സാധ്യമാണ് അതായത് നമ്മൾ ചർച്ച ചെയ്തതുപോലെ കഥ എഴുതുന്നതിലൂടെയും ഒരു ഖണ്ഡിക എഴുതുന്നതിലൂടെയും ഓരോ അളവുകളെയുംകുറിച്ചു അഞ്ച് മുതൽ പത്ത് വരികളിലായി ഒരു ഖണ്ഡിക എഴുതാൻ നിങ്ങൾ അവരോട് ആവശ്യപ്പെടുക ആദ്യത്തേത് സ്വയം സ്വീകാര്യത എന്ന അളവ് ഈ അളവുകളുടെ അർത്ഥം വിവരിക്കുക പോസിറ്റീവ് ബന്ധങ്ങളെക്കുറിച്ച് ഒരു ഖണ്ഡിക എഴുതാൻ അവരോട് ആവശ്യപ്പെടുക ഒപ്പം മറ്റുള്ളവരുമായി നല്ല ബന്ധം ആസ്വദിക്കുക എന്നും നിങ്ങൾ ഒരു ഖണ്ഡിക അമ്പത് വാക്കുകളിലോ ഇരുപത് വാക്കുകളിലോ എഴുതുക അടുത്തത് വ്യക്തിഗത വളർച്ചയാണ് നിങ്ങളുടെ വ്യക്തിഗത വളർച്ചയാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും ദയവായി അവ പത്ത് വരികൾ എഴുതുക അതുപോലെനിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടോ അവരുടെ വൈവിധ്യമെന്താണ് അവർ അത് എങ്ങനെ ഉപയോഗിക്കും നിങ്ങളുടെ ചിന്തകൾ വിശദീകരിച്ച് പ്രതിഫലിപ്പിക്കാമോ അടുത്തത് പാരിസ്ഥിതിക വൈദഗ്ധ്യമാണ് നിങ്ങളുടെ ആഗ്രഹപ്രകാരം എല്ലാം പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതിനാൽ കാര്യങ്ങൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം നീങ്ങുന്നു അതിനർത്ഥം കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി പ്രതികരിക്കുന്ന പരിസ്ഥിതി ഇല്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥരാണെന്ന് അർത്ഥം അതെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പറയുക അതിനാൽ ഇവ ചെറിയ പ്രക്രിയയാണ് എന്നാൽ ഒരാളുടെ ക്ഷേമം വിലയിരുത്തുന്നതിനുള്ള ശക്തമായ സാങ്കേതികതകളാണ് എന്നാൽ ഇത് എപ്പോഴും ആശയത്തിലെ വ്യക്തിയുടെ പാണ്ഡിത്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അത് ഒരാളുടെ ക്ഷേമത്തെക്കുറിച്ച് വ്യക്തമായ ചിത്രമോ ഗ്രാഹ്യമോ നൽകില്ല അതിനാൽ മുന്നോട്ട് പോകുമ്പോൾ ആളുകളുടെ ക്ഷേമത്തെ അളക്കുന്നതിനോ ക്ഷേമത്തെ വികസിപ്പിക്കുന്നതിനോ ഉള്ള അഞ്ച് വഴികൾ കാണാം ഇതും നല്ല പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് കൈവരിക്കാവുന്ന ക്ഷേമത്തിന്റെ ഒരു ചട്ടക്കൂടാണ് ജീവിതത്തിൽ ഒരാളുടെ സംതൃപ്തി സന്തോഷം കൈവരിക്കുന്നതിനുള്ള വളരെ ലളിതമായ രൂപം പോലെ അതെ പോലെ എന്താണ് ഈ ക്ഷേമം സജീവമായിരിക്കുക മറ്റുള്ളവരുമായി പരസ്പര സഹകരണത്തിൽ പോവുക ഫീഡ്ബാക്ക് നൽകുക ശ്രദ്ധിക്കുക പഠനം തുടരുക ക്ഷേമത്തിന്റെ നല്ല പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഈ അഞ്ച് അളവുകലെ കുറിച്ചു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ച ചെയ്യും